ഒരൊറ്റ സ്വതന്ത്ര സ്രോതസ്സുള്ള സർക്യൂട്ടിന്റെ അനാലിസിസ് നിങ്ങൾക്ക് സർക്യൂട്ടിൽ ഒരൊറ്റ സ്വതന്ത്ര സ്രോതസ്സുള്ളപ്പോൾ ഉത്തരം കണ്ടുപിടിക്കുവാനായി ഒരു പക്ഷെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ അഡ് ഹോക്ക് സർക്യൂട്ട് സമ്പ്രദായം ഉപയോഗിക്കാം അതിനാൽ നമുക്ക് പറയാം സീരിസ്സിലും പാരല്ലെലിലും ഉള്ള റെസിസ്റ്ററുകൾ യോജിപ്പിച്ചു അവസാനം ഒരൊറ്റ തുല്യത റെസിസ്റ്റൻസ് സ്വതന്ത്ര സ്രോതസ്സിന്റെ കുറുകെ കണ്ടുപിടിക്കാം എന്നിട്ട് വേറെ വേരിയബിളുകൾ കണ്ടുപിടിക്കാം അതിനാൽ ഇപ്പോൾ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കുറച്ചു കൂടി സങ്കീർണ്ണമായ ഉദാഹരണങ്ങൾ എടുക്കാം നമുക്ക് ഇതുപോലെ ഉള്ള സർക്യൂട്ട് എടുക്കാം ഒരു സ്വതന്ത്ര സ്രോതസ്സ് റെസിസ്റ്ററിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ളത് മുന്നേ തന്നെ ഞാൻ എഴുതിയത് ആണ് ഉത്തരം നിങ്ങൾക്ക് അറിയാം കറണ്ട് V ബൈ R1 ആണെന്ന് അതിനാൽ നിങ്ങൾക്ക് സർക്യൂട്ടിലെ എല്ലാ വേരിയബിളുകളും വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ പറയാം ഇതിനു കുറുകെ ഉള്ള വോൾട്ടേജ് V ആണെന്ന് ഈ ദിശയിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാം രണ്ടു ശാഖയ്യ്ക്കു കുറുകെ ഉള്ള കറണ്ടും വോൾട്ടേജ്ജും വോൾട്ടേജ് സ്രോതസ്സും റെസിസ്റ്ററും ആണെന്ന് ഇപ്പോൾ നമുക്ക് പറയാം നമുക്ക് ഇതുപോലെ എന്തോ ഉണ്ട് റെസിസ്റ്ററുകൾ R1 R2 സീരിസ്സിൽ ഘടിപ്പിച്ചിട്ടുള്ളതിൽ ഒരു V വോൾട്ടേജ് ഉണ്ടെന്നു വീണ്ടും റെസിസ്റ്ററുകളുടെ സീരിസ് കൂട്ടുകെട്ടിനെ ഒരൊറ്റ റെസിസ്റ്റർ ആക്കിയാൽ ഇത് ഒരൊറ്റ റെസിസ്റ്ററ് തന്നെയാണ് R1 പ്ലസ് R2 ഇതിലൂടെ ഉള്ള കറണ്ട് ഈ വോൾട്ടേജ് V യിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കുവാൻ സാധിക്കും അപ്പോൾ ഇവിടുള്ള കറണ്ട് V ബൈ R1 പ്ലസ് R2 ആണ് ഇത് തീർച്ചയായും ഒറിജിനൽ സർക്യൂട്ടിൽ ഒഴുക്കുന്ന അതെ കറണ്ട് തന്നെ ആണ് അതായത് V ബൈ R1 പ്ലസ് R2 ഇനി എന്ത് വേണമെങ്കിലും നിങ്ങളോടു ചോദിക്കാം നിങ്ങളോടു ഈ കറണ്ട് എത്രയെന്നു ചോദിക്കാം ആ കേസിൽ നിങ്ങൾക്ക് അത് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടു ഈ വോൾട്ടേജ് ചോദിക്കാം R2 നു കുറുകെ ഉള്ള വോൾട്ടേജ് കറണ്ടിനെ റെസിസ്റ്റൻസ് മൂല്യം വെച്ച് ഗുണിച്ചിട്ട് നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അപ്പോൾ R2 നു കുറുകെ ഉള്ള വോൾട്ടേജ് V ബൈ R1 പ്ലസ് R അതായത് കറണ്ട് തവണ R2 അതായത് വോൾട്ടേജ് തവണ R2 ബൈ R1 പ്ലസ് R2 ഇനി ഇത് തീർച്ചയായും വോൾട്ടേജ് ഡിവൈഡർ ഫോർമുല അതായത് നിങ്ങൾക്ക് വോൾട്ടേജ് V കൊണ്ട് ഉത്തേജിതമായി സീരീസ് കൂട്ടുകെട്ടിൽ ഉള്ള റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ഒരു റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾട്ടേജ് ഒരു റെഷിയോ ആണ് അതായതു ആ റെസിസ്റ്റൻസ് ബൈ സീരിസ് കൂട്ടുകെട്ടിൽ ഉള്ള മൊത്തം റെസിസ്റ്റൻസ് ഇത് പ്രയോഗിച്ച വോൾട്ടേജിന്റെ അത്രയും തവണ ആണ് അതിനാൽ നമുക്ക് റെസിസ്റ്റൻസ് R2 ഡിവൈഡഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ്സ് ആണ് ഉണ്ടാവുക ഈ കേസ്സിൽ നമുക്ക് രണ്ടു റെസിസ്റ്ററുകളെ ഉള്ളു കൂടാതെ അതിന്റെ മൊത്തം തവണ വോൾട്ടേജ് V അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ ഫോർമുല ഇനി നിങ്ങൾക്ക് R1 നു കുറുകെ ഉള്ള വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് R1 ന്യൂമെറേറ്ററിൽ വേണം R2 നു പകരം അപ്പോൾ വീണ്ടും വളരെ ലളിതം ഇനി നമുക്ക് കറണ്ട് സ്രോതസ്സ് രണ്ടു റെസിസ്റ്ററുകൾ R1 R2 ലേക്ക് പാരലൽ ആയിട്ട് ഘടിപ്പിച്ചിട്ടുള്ള കേസ് നോക്കാം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അറിയാം ഒരു റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുള്ള കറണ്ട് സ്രോതസ്സിനെ പോലെ ആണ് ഇത് പ്രവർത്തിക്കുക എന്ന് ഇനി നിങ്ങൾ ഈ ഓരോന്നിനെയും പരാമർശിക്കുക കണ്ടക്ടൻസ് G1 അതായത് 1 ബൈ R1 എന്നും G2 അതായത് 1 ബൈ R2 എന്നും ആണ് നമുക്ക് അറിയാം ഈ റെസിസ്റ്റൻസിന്റെ കണ്ടക്ടൻസ് G1 പ്ലസ് G2 ആണെന്ന് അതായത് 1 ബൈ R1 പ്ലസ് 1 ബൈ R2 അപ്പോൾ റെസിസ്റ്റൻസിന്റെ കൂട്ടുകെട്ട് നമുക്ക് R1 R2 ബൈ R1 പ്ലസ് R2 എന്ന ഫോർമുലയും അറിയാം നമ്മൾ കറണ്ട് I പ്രയോഗിക്കുന്നു എന്നിട്ട് ഇതിനു കുറുകെ ഉള്ള വോൾട്ടേജ് വളരെ ലളിതമായി ഈ I തവണ റെസിസ്റ്റൻസിന്റെ മൂല്യം അല്ലെങ്കിൽ I ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസിന്റെ മൂല്യം അപ്പോൾ ഈ വോൾട്ടേജ് I ഡിവൈഡഡ് ബൈ G1 പ്ലസ് G2 ആണ് അതായത് തീർച്ചയായും I തവണ R1 R2 ബൈ R1 പ്ലസ് R2 നോട് തുല്യം ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് പാരലൽ കൂട്ടുകെട്ട് ഉണ്ടാകുമ്പോൾ അനാലിസിസിൽ കണ്ടക്ടൻസ് ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റൻസിനേക്കാളും മെച്ചം നമ്മൾ ഇത് രണ്ടിനോടും പൊരുത്തപ്പെട്ടു വരണം കണ്ടക്ടൻസും റെസിസ്റ്റൻസും ചിലപ്പോൾ ചില പദപ്രയോഗങ്ങൾ റെസിസ്റ്റൻസിനേക്കാളും കണ്ടക്ടൻസു വെച്ചിട്ടാകും കൂടുതൽ എളുപ്പം ആയിട്ട് തോന്നുക അതിനാലാണ് അത് ഉപയോഗിക്കുവാനുള്ള പ്രചോദനം അപ്പോൾ തീർച്ചയായും അതെ വോൾടേജ് തന്നെ ആണ് ഒറിജിനൽ സർക്യൂട്ടിലും ഉള്ളത് ഇവിടെ I ഡിവൈഡഡ് ബൈ G1 പ്ലസ് G2 അതായത് I തവണ R1 R2 ബൈ R1 പ്ലസ് R2 ഇനി നിങ്ങളോട് ഈ വോൾടേജ് എത്രയെന്ന് ചോദിക്കാം ഈ കേസിൽ നിങ്ങൾ ഇത് മുന്നേ തന്നെ പരിഹരിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങളോട് കറണ്ടും റെസിസ്റ്ററുകളും എത്രയെന്ന് ചോദിക്കാം അപ്പോൾ ഈ കറണ്ട് വേറൊന്നുമല്ല പക്ഷേ ഈ റെസിസ്റ്റരിനു കുറുകെയുള്ള വോൾട്ടേജ് ഡിസൈഡ് ബൈ റസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റരിനു കുറുകെയുള്ള വോൾട്ടേജ് തവണ കണ്ടക്ടൻസിന്റെ മൂല്യം നിങ്ങൾ ഇത് രണ്ടു രീതിയിലും എഴുതാം അപ്പോൾ ഇവിടുത്തെ കറണ്ട് I തവണ G1 ബൈ G1 പ്ലസ് G2 അടിസ്ഥാനപരമായി ഇത് ഈ വോൾടേജ് തവണ G1 അതായത് ഇതിന്റെ കണ്ടക്ടൻസ്സ് കൂടാതെ ഇതും തീർച്ചയായും I തവണ R2 ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം ഈ കേസ്സിൽ ഞാൻ ഈ പദപ്രയോഗം എടുക്കുന്നു എന്നിട്ട് ഇതിനെ R1 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കൂടിയുള്ള കറണ്ട് I തവണ G2 ബൈ G1 പ്ലസ് G2 ഇത് I തവണ R1 ബൈ R1 പ്ലസ് R2 ആയിട്ടും തുല്യം ആയിരിക്കും തീർച്ചയായും ഇത് വീണ്ടും സുപരിചിതം ആയിട്ടുള്ള കറണ്ട് ഡിവൈഡർ ഫോർമുല ആണ് വോൾടേജ് റെസിസ്റ്ററിന്റെ അനുപാതത്തിൽ ഡിവൈഡ് ചെയ്യപ്പെടും കറണ്ട് കണ്ടക്ടൻസിന്റെ അനുപാതത്തിൽ ഡിവൈഡ് ചെയ്യപ്പെടും കറണ്ട് G1 യിലൂടെ പോകുന്ന പദപ്രയോഗം നോക്കിയാൽ അപ്പോൾ വോൾടേജ് ഡിവൈഡർ നോക്കിയാൽ R1 ബൈ R1 പ്ലസ് R2 നമുക്ക് ഉണ്ട് കറണ്ട് ഡിവൈഡർ നോക്കിയാൽ G1 ബൈ G1 പ്ലസ് G2 നമുക്ക് ഉണ്ട് സാധാരണയായി ഇത് റെസിസ്റ്ററുകളുടെ അനുപാതം ആയിട്ടാണ് അറിയപ്പെടുക ആ കേസിൽ മറ്റേ റെസിസ്റ്റർ എടുക്കും നിങ്ങൾക്ക് പല റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ മറ്റേ റേസിറ്ററുകളുടെ പാരലൽ കൂട്ടായ്മ എടുക്കണം അതിനാൽ കറണ്ട് ഡിവൈഡറിൽ കണ്ടക്ടൻസിനു ഉപയോഗിക്കുന്ന ഫോർമുല എളുപ്പം ആയിരിക്കും പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇത് വീണ്ടും വേറൊരു ലളിതമായ ഉദാഹരണം ആണ് ഇനി നമ്മൾ ഈ രണ്ടു വീക്ഷണങ്ങളും കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നു ഇത് പോലെ നമുക്ക് വോൾടേജ് V ഉണ്ട് റെസിസ്റ്റൻസ് R1 R2 R3 കൂടാതെ ഇത് ഇത് ഈ R2 വിനും ഈ R3 യ്ക്കും പാരലൽ ആണ് അപ്പോൾ നമുക്ക് പാരലൽ കൂട്ടുകെട്ട് ഉണ്ടാകും അവസാനം ഇതെല്ലം സീരിസിലും ഇവയെ ഒക്കെ ഒരൊറ്റ റെസിസ്റ്റർ ആയിട്ട് ചുരുക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എല്ലാം കണ്ടുപിടിക്കുവാൻ സാധിക്കും അതായത് ആദ്യം തന്നെ നമുക്ക് കറണ്ട് I കണ്ടുപിടിക്കുവാൻ സാധിക്കും അപ്പോൾ ഇത് തീർച്ചയായും വോൾടേജ് V I എന്നുവെച്ചാൽ V ഡിവൈഡഡ് ബൈ മൊത്തം റെസിസ്റ്റൻസ് കൂടാതെ അതെ കറണ്ട് തന്നെ ആയിരിക്കും ഇവിടെയും ഇവിടെയും ഇനി നിങ്ങൾക്ക് R1 നു കുറുകെ ഉള്ള വോൾടേജ് കണ്ടുപിടിക്കണമെങ്കിൽ അത് I തവണ R1 ആയിരിക്കും അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും ഇനി ഈ നോഡിൽ ഈ I രണ്ടായിട്ടു ഭാഗിക്കുക അപ്പോൾ അതിലെ കുറച്ചു ഈ വഴി പോകും ബാക്കി കുറച്ചു ഈ വഴി പോകും അവസാനം ഒന്നാകും നിങ്ങൾക്ക് ഈ കറണ്ട് വേണമെങ്കിൽ R2 പ്ലസ് R3 യിലൂടെ ഉള്ള കറണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോയി കറണ്ട് ഡിവൈഡർ സിദ്ധാന്തം ഉപയോഗിക്കാം അപ്പോൾ എല്ലാം സീരിസ് പാരലൽ ഘടകങ്ങളുടെ കൂട്ടായ്മയുടെ ആവർത്തനം ആണ് അപ്പോൾ ആ കേസ്സിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം വോൾടേജ് ഡിവൈഡർ അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡർ ഉപയോഗിക്കാം എന്നിട്ട് പരിഹാരം കണ്ടുപിടിക്കാം ഉദാഹരണമായി നിങ്ങൾ നേരത്തെ തന്നെ I കണ്ടുപിടിച്ചു അപ്പോൾ R3 യിലൂടെ ഉള്ള കറണ്ട് I തവണ R2 ബൈ R3 പ്ലസ് R3 ആകും ഞാൻ ഇത് വേറൊരു നിറത്തിൽ ഇടട്ടെ അപ്പോൾ ഇതാണ് R3 യിലൂടെ ഉള്ള കറണ്ട് കൂടാതെ R2 യിലൂടെ ഉള്ള കറണ്ട് തീർച്ചയായും I തവണ R3 ബൈ R2 പ്ലസ് R3 ആയിരിക്കും അപ്പോൾ ഇനി സർക്യൂട്ട് കൂടുതൽ സങ്കീർണമാകാം പക്ഷെ നിങ്ങൾക്ക് ഇത് തന്നെ തുടരാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ സീരീസ് പാരലൽ കൂട്ടുകെട്ട് പ്രയോഗിക്കാം എന്നിട്ട് ഒരു റെസിസ്റ്റൻസ് സ്വതന്ത്ര വോൾടേജ് സ്രോതസ്സിനു കുറുകെയും ഉള്ളതായി ആക്കാം എന്നിട്ട് കറണ്ട് അല്ലെങ്കിൽ വോൾടേജ് കണ്ടുപിടിക്കുക അവിടെ നിന്ന് തുടർച്ചയായി കണ്ടുപിടിക്കുക വോൾടേജ് ഡിവൈഡർ അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡർ ഫോർമുല ഉപയോഗിച്ച് ഇനി ഇത് പല സർക്യൂട്ടിനും പ്രാവർത്തികമാണ് ഒരു ആശ്രിത വോൾടേജ് സ്രോതസ്സിൽ ഉള്ള സർക്യൂട്ടിന് കാര്യങ്ങൾ കുറെ കൂടി സമ്മിശ്രമാകാം നമ്മൾ പറയുകയാണെങ്കിൽ കറണ്ട് സ്രോതസ്സിനു കുറുകെ ഉള്ള തുല്യത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിനായി കുറച്ചു അനാലിസിസ് വേണ്ടി വന്നേക്കാം അപ്പോൾ ഈ കേസ്സിൽ ചിട്ടയോടുകൂടിയുള്ള അനാലിസിസ് രീതി ആയിരിക്കും കൂടുതൽ നല്ലതു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേറെ കുറെ സങ്കീർണതകളും വന്നു ചേരാം അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുവാൻ പോലും ചിട്ടയോടുകൂടിയുള്ള അനാലിസിസ് രീതി അവലംബിക്കേണ്ടി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ചിട്ടയോടുകൂടിയുള്ള അനാലിസിസ് രീതി വെച്ച് കണ്ടുപിടിക്കാം അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ഒരു സ്വതന്ത്ര സ്രോതസ്സ് ഉള്ളപ്പോൾ സാധാരണ സീരീസ് പാരലൽ കൂട്ടുകെട്ട് നോക്കി നിങ്ങൾക്ക് ഒരൊറ്റ തുല്യത ഘടകം വോൾടേജ് സ്രോതസ്സിന്റെയോ കറണ്ട് സ്രോതസ്സിന്റെയോ കുറുകെ കണ്ടുപിടിക്കുവാൻ സാധിക്കും അവിടെ നിന്ന് മുന്നേറി നിങ്ങൾക്ക് വേണ്ടത് എല്ലാം പരിഹരിക്കുവാൻ സാധിക്കും